ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നോർട്ടന്റെNorton's തുല്യത കണ്ടെത്തുന്നതിനുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വിശദീകരിക്കും നമുക്ക് വളരെ ലളിതമായ ഒരു സർക്യൂട്ട് എടുക്കാം ഈ രൂപത്തിൽ ഒരു നോർട്ടൺ കറന്റ് സോഴ്സും സമാന്തരമായി ഒരു നോർട്ടൺ റെസിസ്റ്റൻസും ഉള്ള തത്തുല്യമായ മോഡൽ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു നോർട്ടൺ കറന്റ് സ്രോതസ്സ് കണ്ടെത്താൻ ഈ രണ്ട് ടെർമിനലുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഷോർട്ട് സർക്യൂട്ടിലൂടെ കറന്റ് കണ്ടെത്തണം അതിനാൽ ഞാൻ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അപ്പോൾ ഈ 5 വോൾട്ട് ഈ 1 കിലോ Ω ൽ ഇടയിൽ ആവുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം അതിനാൽ ഇവിടെ നമുക്ക് 1 കിലോ Ω ൽ 5 വോൾട്ടുകൾ ഉണ്ട് ഇത് 5 മില്ലിയാമ്പ് കറന്റിന് കാരണമാകുന്നു അത് ഷോർട്ട് സർക്യൂട്ടിലൂടെ കടന്നുപോകുന്നു ഓർക്കുക ഈ 4 കിലോ Ω ഷോർട്ട് സർക്യൂട്ടിന് കുറുകെയാണ് അതിനാൽ എല്ലാ കറന്റും ഷോർട്ട് സർക്യൂട്ടിലേക്ക് പോകും 4 കിലോ Ω റെസിസ്റ്ററിലേക്കല്ല അതിനാൽ ആ ദിശയിൽ അത് 5 മില്ലിയാമ്പ് ആയിരിക്കും അതിനാൽ 1 മുതൽ 1 പ്രൈമിലേക്ക് വരെ പോകുന്ന IN ആണ് നിങ്ങൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 1 മുതൽ 1 പ്രൈം വരെ IN പോകും അതിനാൽ ഈ കേസിൽ IN എന്നത് കേവലം 5 മില്ലി ആമ്പിയർ ആണ് RN കണ്ടെത്തുന്നതിന് ഈ വോൾട്ടേജ് സ്രോതസ്സ് നിർജ്ജീവമാക്കുകയും 1 നും 1 പ്രൈമിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് കണ്ടെത്തുകയും വേണം ഞാൻ 5 വോൾട്ട് ഉറവിടം അസാധുവാക്കിക്കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു എനിക്ക് ഈ രണ്ട് റെസിസ്റ്ററുകൾ ഉണ്ട് 1 കിലോ Ω 4 കിലോ Ω ഞാൻ ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിച്ചാൽ എനിക്ക് കറന്റ് കണ്ടെത്താനാകും റെസിസ്റ്റൻസ് കണ്ടെത്താൻ അനുപാതം എടുക്കുക ഈ കേസ് വളരെ എളുപ്പമാണ് 1 കിലോ Ω ഉം 4 കിലോ Ω ഉം സമാന്തരമായി ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇത് ഒരു വളഞ്ഞ രീതിയിലാണ് വരച്ചിരിക്കുന്നത് എന്നാൽ 1 കിലോ Ω റെസിസ്റ്ററും 4 കിലോ Ω റെസിസ്റ്ററും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ തുല്യമായ പ്രതിരോധം RN എന്നത് സമാന്തര സംയോജനമാണ് ഇത് 4 × 1 4 1 കിലോ Ω ആണ് ഇത് നിങ്ങൾക്ക് 0 8 കിലോ അല്ലെങ്കിൽ 800 Ω നൽകുന്നു നോർട്ടൺ തുല്യമായ ഈ സർക്യൂട്ടിൽ 800 Ω റെസിസ്റ്ററിന് സമാന്തരമായി 5 മില്ലിയാമ്പ് കറന്റ് സ്രോതസ്സ് അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ പൂർണ്ണതയ്ക്കായി നമ്മൾ തെവെനിൻ തുല്യമായ മൂല്യം വിലയിരുത്തിയാൽ തെവെനിൻ പ്രതിരോധം ഇതിന് സമാനമായിരിക്കും അത് 800 Ω ആയിരിക്കും തെവെനിൻ വോൾട്ടേജ് നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ IN × RN ആയിരിക്കും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 1 നും 1 പ്രൈംനും ഇടയിലുള്ള കണക്കാക്കി നിങ്ങൾക്ക് അത് കുറയ്ക്കാനും കഴിയും അതിനാൽ വോൾട്ടേജ് ഡിവൈഡർ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഇവ രണ്ടും തമ്മിലുള്ള വോൾട്ടേജ് 4 കിലോ Ω മൊത്തം പ്രതിരോധം 5 കിലോ Ω x 5 വോൾട്ട് ആണ് അത് 4 വോൾട്ട് ആണ് അതിനാൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഫോർമുലയും ഇത് സ്ഥിരീകരിക്കുന്നു അതിനാൽ ഇത് 800 Ω ഉള്ള ശ്രേണിയിൽ 4 വോൾട്ട് ഉറവിടമായിരിക്കും വളരെ ലളിതമായ ഉദാഹരണം ആണ് ഇത് ഇനി നമുക്ക് മറ്റൊരു കേസ് പരിഗണിക്കാം ഇതിന് 1 കിലോ Ω റെസിസ്റ്ററുണ്ട് ഞാൻ Vx ഇതുപോലെ നിർവചിക്കും ഈ വോൾട്ടേജ് കൺട്രോൾ കറന്റ് സ്രോതസ്സ് 0 5 മില്ലിസിമെൻസ് × Vx ന് 1 ഉം 1 പ്രൈമും ഉണ്ട് അതിനാൽ ആദ്യം എനിക്ക് ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തണം അതിനാൽ ഇവ രണ്ടിനും ഇടയിൽ ഞാൻ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുന്നു ഈ 10 വോൾട്ട് സ്രോതസ്സ് ഈ 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം നേരിട്ട് ദൃശ്യമാകുന്നതായും ധ്രുവത അങ്ങനെയാണെന്നും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അതായത് 10 വോൾട്ട് അതിനാൽ ഈ Vx മൈനസ് 10 വോൾട്ട് ആണ് ഒന്നാമതായി റെസിസ്റ്ററിലുടനീളം ഈ 10 വോൾട്ട് ആ ദിശയിൽ 10 മില്ലിയാമ്പ് വൈദ്യുതധാരയ്ക്ക് കാരണമാകുന്നു ഈ Vx മൈനസ് 10 വോൾട്ട് ആണ് അതിനാൽ നമുക്ക് മൈനസ് 0 5 മില്ലിസീമെൻസ് × 10 വോൾട്ട് ഉണ്ട് അതായത് ആ ദിശയിൽ മൈനസ് 5 മില്ലിയാമ്പ് അല്ലെങ്കിൽ 5 മില്ലിയാമ്പ് മുകളിലേക്ക് ഒഴുകുന്നു ഇവിടെ നിലവിലുള്ള IN എന്നത് 10 മില്ലിയാമ്പുകളുടെയും മൈനസ് 5 മില്ലിയാമ്പുകളുടെയും നെഗറ്റീവ് തുകയാണ് അതിനാൽ ഇത് മൈനസ് 5 മില്ലി ആമ്പിയറുകൾക്ക് തുല്യമാണ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് IN ഈ കേസിൽ മൈനസ് 5 മില്ലി ആമ്പിയർ ആണ് ഇപ്പോൾ നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടെത്താൻ നമുക്ക് വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം അത് അസാധുവാക്കണം അതായത് ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണ് നമ്മൾ 1 നും 1 പ്രൈമിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് കണ്ടെത്തണം പതിവുപോലെ നമ്മൾ ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കുകയും ആ വഴി ഒഴുകുന്നത് കണ്ടെത്തുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ ഇത് Vx ആണ് Vx എന്നത് മൈനസ് Vtestന് തുല്യമാണ് ഈ പോളാരിറ്റി ഉള്ള ഈ 1 കിലോ Ω റെസിസ്റ്ററിലുടനീളം ഈ Vtest നേരിട്ട് ദൃശ്യമാകുന്നതായും നമ്മൾ നിരീക്ഷിച്ചു അതാണ് Vtest അതിനാൽ ഒന്നാമതായി ഇവിടെ നമുക്ക് നിലവിലുള്ള Vtest 1 കിലോ Ω കൊണ്ട് ഹരിക്കുന്നു ഈ ദിശയിൽ നമ്മൾക്ക് ഒരു കറന്റ് മൈനസ് 0 5 മില്ലിസീമെൻസ് × Vtest ഉണ്ട് അതിനാൽ ആ വഴിക്ക് ഒഴുകുന്ന Itest ന്റെ ആകെ കറന്റ് ഇതിന്റെയും ഒന്നിന്റെയും ആകെത്തുകയാണ് അതായത് 1 കിലോ Ω മൈനസ് 0 5 മില്ലിസീമെൻസ് × Vtest ഇത് 0 5 മില്ലിസീമെൻസ് × Vtest തുല്യമാണ് അതിനാൽ RN എന്ന അനുപാതം അതായത് Itest Vtest അനുപാതം 2 കിലോ Ω ന് തുല്യമാണ് അതിനാൽ ഈ മുഴുവൻ സർക്യൂട്ടും ഈ ദിശയിലുള്ള മൈനസ് 5 മില്ലിയാമ്പ് സ്രോതസ്സ്നും സമാന്തരമായി 2 കിലോ Ω പ്രതിരോധത്തിനും തുല്യമാണ് അതിനാൽ അതാണ് തത്തുല്യമായ ഉറവിടം കറന്റിന്റെ ദിശ കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് 5 മില്ലിയാമ്പ് കറന്റ് സ്രോതസ്സ് ആയും എഴുതാം താഴേക്ക് ചൂണ്ടിക്കാണിച്ച് 1 1 പ്രൈം ഇടയിൽ 2 കിലോ Ω കാണാം വീണ്ടും ഞാൻ ഇവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് തുല്യമായത് കണ്ടെത്തുന്ന രീതി എല്ലായ്പ്പോഴും സമാനമാണ് നിങ്ങൾ ടെർമിനലുകൾ 1 നും 1 നും ഇടയിൽ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നു ശരിയായ ദിശയിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് കണ്ടെത്തുക തുടർന്ന് നിങ്ങൾ എല്ലാ ഇൻഡിപെൻഡന്റ് സ്രോതസ്സുകളും നിർജ്ജീവമാക്കുക ആശ്രിത സ്രോതസ്സുകൾ അവയുടെ നിയന്ത്രിത അളവുകൾ പോലെ തന്നെ നിലകൊള്ളുന്നു കൂടാതെ രണ്ട് ടെർമിനലുകളിലേക്കും തിരിച്ചുള്ള പ്രതിരോധം നിങ്ങൾ കണ്ടെത്തുന്നു അത് നിങ്ങൾക്ക് നോർട്ടൺ പ്രതിരോധം നൽകുന്നു